ആദ്യം നമുക്ക് ഒരു വോൾട്ടേജ് നിയന്ത്രിത ഔട്ട്പുട്ട് സോഴ്സ് നിർമിക്കാൻ ശ്രമിക്കാം ഇപ്പോൾ ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിന് ഔട്ട്പുട്ട് വോൾട്ടേജ് നിശ്ചിത സ്ഥിരമായ സംഖ്യാ ഗുണം ഇൻപുട്ട് വോൾട്ടേജ് ആണ് അതായത് രണ്ട് നോഡുകൾക്കിടയിൽ ഇൻപുട്ട് പ്രയോഗിക്കുന്നുവെന്ന് പറയട്ടെ ഔട്ട്പുട്ട് വോൾട്ടേജായ ഒരു വോൾട്ടേജ് kvi ഉണ്ടാകും ഇപ്പോൾ ഏതെങ്കിലും ലീനിയർ സർക്യൂട്ട് അത് പോലെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം നിങ്ങൾ എവിടെയെങ്കിലും കുറച്ച് ഇൻപുട്ട് പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു ഔട്ട്പുട്ട് ലഭിക്കും അത് ഇൻപുട്ടിനെക്കാൾ ഇരട്ടിയാണ് അത് ഒരു ലീനിയർ സർക്യൂട്ടിന്റെ സവിശേഷതയാണ് ഏതൊരു ലീനിയർ സർക്യൂട്ടും നിങ്ങൾക്ക് k ഗുണം ഇൻപുട്ട് നൽകും എന്നാൽ ഒരു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സിന് പ്രധാനപ്പെട്ട മറ്റ് സ്വഭാവഗുണങ്ങളുണ്ട് അതായത് ഏതെങ്കിലും ഇന്റേണൽ റെസിസ്റ്റൻസുമായി നിങ്ങൾക്ക് ഇൻപുട്ട് വോൾട്ടേജ് ബന്ധിപ്പിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾക്ക് വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ നിയന്ത്രണ ടെർമിനലായ ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടെന്ന് കാണാൻ കഴിയും അതിനാൽ ഈ vi ഇവിടെ പൂർണ്ണമായും ദൃശ്യമാകുന്നു വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് അനന്തമാണെന്നത് ഇതിന്റെ സവിശേഷതയാണ് ഇൻപുട്ട് റെസിസ്റ്റൻസ് അനന്തമാണെങ്കിൽ RS ന്റെ ഏത് മൂല്യവും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരു അപൂർണ്ണ സോഴ്സ് vi ഉപയോഗിക്കാം എന്നാൽ ഈ ഇൻപുട്ട് വോൾട്ടേജുകളെല്ലാം വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ നിയന്ത്രണ ടെർമിനലുകളിൽ ദൃശ്യമാകുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ Ri ഒരു റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഈ വോൾട്ടേജ് vi ആയിരിക്കില്ല പക്ഷേ അത് viRiRsRi ആയിരിക്കും Ri വളരെ ചെറുതാണെങ്കിൽ അവിടെ ദൃശ്യമാകുന്ന vi യുടെ ഭിന്നസംഖ്യയും വളരെ ചെറുതായിരിക്കാം Ri എന്നത് അനന്തമായിരിക്കണം വാസ്തവത്തിൽ അത് വളരെ വലുതായിരിക്കണം അങ്ങനെ Rsന്റെ ഒരു മൂല്യങ്ങളുടെ ശ്രേണിയിൽ ഇവിടെ ദൃശ്യമാകുന്ന ഇൻപുട്ട് വോൾട്ടേജിന്റെ അംശം ഒന്നിനോട് വളരെ അടുത്താണ് അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ള ഏത് ലോഡും കണക്റ്റുചെയ്യാൻ കഴിയണം അത് ഔട്ട്പുട്ട് വോൾട്ടേജിൽ മാറ്റം വരുത്തരുത് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറ്റാൻ സാധ്യതയുള്ളത് അതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് അതിനാൽ ഞാൻ ഈ റെസിസ്റ്റൻസിനെ Ro എന്ന് വിളിക്കാം അത് ഇവിടെ കാണുന്ന റെസിസ്റ്റൻസ് ആണ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അപ്പോൾ നിങ്ങൾക്ക് Ri അനന്തമാണെന്ന് ആദ്യം സങ്കൽപ്പിക്കാം അതിനാൽ എല്ലാ Vi ഉം ഇവിടെ ദൃശ്യമാകുന്നു ഈ വോൾട്ടേജ് സോഴ്സ് നിങ്ങൾക്ക് kvi നൽകുന്നു എന്നാൽ യഥാർത്ഥ ഔട്ട്പുട്ട് ഇവിടെ ദൃശ്യമാകുന്ന വോൾട്ടേജ് kviRLRoRL Ro എന്നത് RL അല്ലെങ്കിൽ അതിലും ഉയർന്നതുമായി താരതമ്യപ്പെടുത്താമെങ്കിൽ നിങ്ങൾക്ക് ലോഡിന് കുറുകെ ലഭിക്കുന്ന വോൾട്ടേജ് kvi യിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അത് അതിനേക്കാൾ വളരെ ചെറുതാണ് അതിനാൽ വാസ്തവത്തിൽ Ro പൂജ്യമായിരിക്കണം എന്ന് നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും അതിനാൽ ഈ സാഹചര്യത്തിൽ ഈ ഭിന്നസംഖ്യ ഒന്നായിത്തീരുന്നു അതുപോലെ Ri അനന്തമായി മാറുന്നത് ഈ ഭിന്നസംഖ്യയെ ഒന്നിലേക്ക് കൊണ്ടുപോകുന്നു അതിനാൽ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ അനുയോജ്യമായ ക്യാരക്ടറിസ്റ്റിക്സ് ആണിത് അതിനാൽ വോൾട്ടേജ് നിയന്ത്രിത വോൾട്ടേജ് സോഴ്സ്ന്റെ സവിശേഷത ഇൻപുട്ട് റെസിസ്റ്റൻസ് Ri അനന്തവും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് Ro പൂജ്യവുമാണ് പ്രായോഗികമായി നമ്മൾക്ക് അനന്തമായ വലിയ ഇൻപുട്ട് റെസിസ്റ്റൻസ് നേടാനാവില്ല അതിനാൽ Ri വളരെ വലുതായിരിക്കണം Ri പോലുള്ള അളവുകളുള്ള ഒരു അളവ് നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതിനെ അപേക്ഷിച്ച് ഇത് വളരെ വലുതാണെന്ന് നമ്മൾ പറയണം ഈ സാഹചര്യത്തിൽ ഇത് പ്രതീക്ഷിക്കുന്ന മൂല്യങ്ങളുടെ ശ്രേണിയെക്കാൾ വളരെ വലുതായിരിക്കണം അങ്ങനെയാണെങ്കിൽ Ro യുടെ മൂല്യം കണക്കിലെടുക്കാതെ ഇവിടെ ഈ ഭിന്നസംഖ്യ ഒന്നിനടുത്തായിരിക്കും അതുപോലെ Ro ഞങ്ങൾക്ക് ഇത് കൃത്യമായി പൂജ്യമാക്കാൻ കഴിയില്ല അത് വളരെ ചെറുതായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ ചെറിയതായിരിക്കണം എന്നതിന്റെ അർഥം ഇത് RL ന്റെ പ്രതീക്ഷിച്ച മൂല്യങ്ങളെക്കാൾ വളരെ ചെറുതായിരിക്കണം അതിനാൽ ഈ അവസ്ഥ വീണ്ടും തൃപ്തികരമാണെങ്കിൽ ഇവിടെ ഈ ഭിന്നസംഖ്യ ഒന്നിനടുത്തായിരിക്കും ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് എന്നിവയുടെ അനുപാതം നമുക്ക് ഉണ്ടാകും അത് k ആണ് ഇത് Rs RL എന്നിവയിൽ നിന്ന് വ്യത്യസ്തമാണ് അത് വളരെ പ്രധാനമാണ് നിയന്ത്രിത സോഴ്സിൽ ഔട്ട്പുട്ട് അളവ് ലോഡ് റെസിസ്റ്റൻസ് സോഴ്സ് റെസിസ്റ്റൻസ് എന്നിവയിൽ നിന്നും വിഭിന്നമായിരിക്കണം ഒരു MOS ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമ്മൾ ഇത് എങ്ങനെ മനസ്സിലാക്കും ഒന്നാമതായി ചില നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ അതായത് MOSFET ന്റെ നിയന്ത്രണത്തിനും നിയന്ത്രിത വശത്തിനും സോഴ്സ് ഒന്നായതിനാൽ k ഉപയോഗിച്ച് VCVS മാത്രമേ നമുക്ക് തിരിച്ചറിയാൻ കഴിയൂ എന്ന രീതിയിലേക്ക് മാറുന്നു അത് vo vi എന്നതിന് തുല്യമാണ് ഞങ്ങൾ പിന്നീട് ഇതിലേക്ക് വരും ഇത് ഒരൊറ്റ MOS ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നു എന്താണ് നല്ലതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എനിക്ക് ഇതിനകം ഇൻപുട്ട് വോൾട്ടേജ് ഉണ്ട് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും ജനറേറ്റ് ചെയ്യേണ്ടത് പോയിന്റ് ഇതാണ് താപനിലയും ട്രാൻസിസ്റ്ററിനെ നിയന്ത്രിക്കുന്ന മറ്റ് പ്രോസസ്സ് പാരാമീറ്ററുകളും കണക്കിലെടുക്കാതെ k ഒന്നിന് തുല്യമായി നിലനിർത്തുന്ന ഒരു നിയന്ത്രണ സോഴ്സ് നമ്മൾ സൃഷ്ടിക്കും വളരെ വലിയ ഇൻപുട്ട് റെസിസ്റ്റൻസും വളരെ ചെറിയ ഔട്ട്പുട്ട് റെസിസ്റ്റൻസും നമ്മൾ നിലനിർത്തും അതിനാൽ ഗെയിൻ നൽകാത്ത അത്തരമൊരു സർക്യൂട്ട് അത് ആകർഷണീയ ഗെയിൻ നൽകുന്നു പക്ഷേ ഇപ്പോഴും ഇൻപുട്ട് റെസിസ്റ്റൻസ് അനന്തതയിലേക്കും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പൂജ്യത്തിലേക്കും നയിക്കുന്നു ഇതിനെ വോൾട്ടേജ് ബഫർ എന്ന് വിളിക്കുന്നു ഇതിന് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നു കാരണം നിങ്ങൾക്ക് Vi യും കുറച്ച് Rs ഉം കുറച്ച് RL ഉം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് നേരിട്ട് കണക്റ്റുചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നത് Vi ആയിരിക്കില്ല ഇത് Vi യേക്കാൾ വളരെ ചെറുതായിരിക്കാം അതിനുപകരം നിങ്ങൾ ഇത് ഒരു ബഫറിലൂടെ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിന്റെ ഗേയിൻ ഒന്നാണ് പക്ഷേ അതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് അനന്തവും ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് പൂജ്യവുമാണ് അത്തരം സാഹചര്യത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് Vi ന് തുല്യമാണ് കാരണം ഈ സമയത്ത് നമുക്ക് Vi ലഭിക്കും അതിന്റെ ഔട്ട്പുട്ട് ഇൻപുട്ടിന് തുല്യമായത് ലഭിക്കും അതിനാൽ ഇവിടെ നമുക്ക് Vi ലഭിക്കും ഇത് RL ന്റെ മൂല്യത്തെ ബാധിക്കില്ല അതിനാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത് ഒരു വോൾട്ടേജ് ബഫറാണ് ഇത് ഇപ്പോഴും വളരെ ഉപയോഗപ്രദമായ കാര്യമാണ് ഒരൊറ്റ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചുള്ള വളരെ ഉപയോഗപ്രദമായ ബിൽഡിംഗ് ബ്ലോക്കാണ് ഇത്